ടാസ്ക് ഷെഡ്യൂളിംഗിന്റെ ചട്ടക്കൂടിലെ ടാസ്ക്കുകൾക്കിടയിൽ വിഭവങ്ങൾ എങ്ങനെ പങ്കിടാമെന്ന് മുമ്പ് പരിശോധിച്ചു ഒന്നുകിൽ റേറ്റ് മോണോടോണിക് ഷെഡ്യൂളർ അല്ലെങ്കിൽ ആദ്യകാല ആദ്യ സമയപരിധി ഷെഡ്യൂളർ ആയിരിക്കണം കൂടാതെ നിർണായക വിഭാഗങ്ങളും സെമാഫോറുകളും ചർച്ചചെയ്തു ഒരു പരമ്പരാഗത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽഉപയോഗിക്കുന്ന സെമാഫോർ പരിഹാരം നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇത് ഒരു റിയൽ ടൈം അപ്ലിക്കേഷനിൽ ഉള്ളതിനാൽ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല ഇത് രണ്ട് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാകാം പ്രിയോറിറ്റി ഇൻവെർഷൻ അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻ കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ടാസ്ക് മുൻകൂട്ടി നൽകാനാവാത്ത ഒരു റിസോഴ്സ് ലോക്ക് ചെയ്യുകയും ഉയർന്ന പ്രിയോറിറ്റി ചുമതല നിർവ്വഹിക്കാൻ കഴിയാത്തതും ഒരു റിസോഴ്സിനായി കാത്തിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ലളിതമായ പ്രിയോറിറ്റി ഇൻവെർഷൻ ഉണ്ടാകുന്നു നമ്മൾക്കു ഒരു പ്രിയോറിറ്റി ഇൻവെർഷൻ ഉദാഹരണമുണ്ട് അവിടെ കുറഞ്ഞ പ്രിയോറിറ്റി ഉള്ള ടാസ്ക് നിർവ്വഹിക്കുകയും ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്ക് കാത്തിരിക്കുകയും ചെയ്യുന്നു പക്ഷേ പ്രിയോറിറ്റി ഇൻവെർഷൻ പ്രശ്നം വളരെ മോശമല്ല കാരണം ഇത് ശ്രദ്ധാപൂർവ്വമായ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ച് പരിഹരിക്കാനാകും എന്നാൽ അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻ ൽ റിസോഴ്സ് കൈവശം വച്ചിരിക്കുന്ന കുറഞ്ഞ പ്രിയോറിറ്റി ഉള്ള ടാസ്ക് സിപിയു ഉപയോഗങ്ങളിൽ നിന്ന് റിസോഴ്സ് ആവശ്യമില്ലാത്ത മറ്റ് ഇന്റർമീഡിയറ്റ് പ്രിയോറിറ്റി ടാസ്കുക ളാൽ ഒഴിവാക്കപ്പെടും അവസാന പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ നിർണായക വിഭാഗത്തെക്കുറിച്ചും പ്രിയോറിറ്റി ഇൻവെർഷൻ എങ്ങനെ ഉണ്ടാകാമെന്നതിനെക്കുറിച്ചും അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻ ക്കുറിച്ചും അതിന്റെ പരിഹാരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും ഉദാഹരണത്തിന് നമ്മൾക്കു 2 ടാസ്കുകളുണ്ട് ടി 1 ടി 3 എന്നിവക്ക് മുൻകൂട്ടി നിശ്ചയിക്കാനാവാത്ത ഒരു റിസോഴ്സ് പങ്കിടേണ്ടതുണ്ട് ഇതിനർത്ഥം അവർ റിസോഴ്സ് എക്സ്ക്ലൂസീവ് മോഡിൽ ആക്സസ് ചെയ്യേണ്ടതുണ്ടെന്നും ഇതിനകം റിസോഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടാസ്ക് റിസോഴ്സ് ഉപയോഗിച്ച് അതിന്റെ എക്സിക്യൂഷൻ പൂർത്തിയാക്കുമ്പോൾ മാത്രമേ മറ്റൊരു ജോലിക്കു ഇത് ഉപയോഗിക്കാൻ കഴിയൂ രണ്ട് ജോലികളും ഇനിപ്പറയുന്ന തരത്തിലുള്ള കോഡുകളാണ് കൂടാതെ പ്രോഗ്രാമിന്റെ ചില ഭാഗങ്ങളുണ്ട് അവിടെ റിസോഴ്സ് ഉപയോഗിക്കാതെ കുറച്ച് പ്രോസസ്സിംഗ് നടത്തുന്നു

റിസോഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് ഇത് പ്രീ എംപ്ട് ചെയ്യാനാവാത്ത ഒരു റിസോഴ്സ് ആയതിനാൽ അവർ P വിളിക്കുന്നു അടിസ്ഥാനപരമായി സെമാഫോറി നായി കാത്തിരിക്കുന്നു കൂടാതെ സെമാഫോറിലേക്ക് പ്രവേശനം നേടിയ ശേഷംഇവിടെ കോഡ് സെഗ്മെന്റ് പൂർത്തിയാക്കിയ ശേഷം അതായത് അവർ പങ്കിട്ട റിസോഴ്സ് ഉപയോഗിക്കുന്ന കോഡിന്റെ ഭാഗം ആരംഭിച്ചുകഴിഞ്ഞാൽറിസോഴ്സ് റിലീസ് ചെയ്യുന്നതിനുള്ള സിഗ്നൽ സെമാഫോറായ വി എക്സ് V നിർദ്ദേശം അവർ നടപ്പിലാക്കുന്നു ഷെയേർഡ് റിസോഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു തുടർന്ന് കൂടുതൽ ലോക്കൽ പ്രോസസ്സിംഗ് നടക്കുന്നു ഒരേ വെയിറ്റ് സിഗ്നലിൽ തുടങ്ങിയ മറ്റൊരു ടാസ്ക് ഉപയോഗിക്കുന്ന ഷെയേർഡ് റിസോഴ്സ് ഉള്ള കോഡിന്റെ ഭാഗം ഉപയോഗിക്കാതെ അതെ സിഗ്നൽ കോഡിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ ആകുന്നത് വരെ അത്തരമൊരു സാഹചര്യത്തിൽ പ്രിയോറിറ്റി ഇൻവെർഷൻ ഉണ്ടാകുന്ന രീതി ഇനി പറയുന്നത് ആണ് കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ഒരു ടാസ്ക് ടി 3 ഉണ്ടെന്ന് കരുതുക ചില ലോക്കൽ പ്രോസസ്സിംഗ്ചെയ്യുന്നത് L ഉപയോഗിച്ചു സൂചിപ്പിക്കാം കുറച്ച് സമയത്തിന് ശേഷം അത് ക്രിട്ടിക്കൽ സെക്ഷൻലേക്ക് പ്രവേശിക്കുന്നു റിസോഴ്സ് ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് ഒരു വെയിറ്റ് സെമാഫോർ ചെയ്യുന്നു സെമാഫോർ ലഭ്യമായതിനാൽ അത് റിസോഴ്സ് നേടുകയും അതുവഴി റിസോഴ്സ് ഉപയോഗിച്ച് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ ആ t സമയത്ത് ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ചുമതല ആയ T1 എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു അത് t3 വരെ ലോക്കൽ പ്രോസസ്സിംഗ് നടത്തുന്നു t3 സമയത്തു അത് ക്രിട്ടിക്കൽ സെക്ഷൻ ലേക്ക് കടക്കുകയും റിസോഴ്സ് ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരേ വിഡ്ത് ഉള്ള ഇൻസ്ട്രുക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയോ ചെയ്യും റിസോഴ്സ് ഇതിനകം T 3 കൈവശം വച്ചിരിക്കുന്നതിനാൽ ടാസ്ക് T1 നെ തടഞ്ഞു അത് തടഞ്ഞുകഴിഞ്ഞാൽ T3 സജീവമാവുകയും ഒരു റിസോഴ്സ് ഉപയോഗിക്കുകയും t4 ന് ശേഷം അത് എക്സിക്യൂഷൻ പൂർത്തിയാക്കുകയും ചെയ്യുന്നു തുടർന്ന് T1 റിസോഴ്സ് നേടി എക്സിക്യൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു ലോക്കൽ പ്രോസസ്സിംഗ് നടത്തുന്നു അത് പൂർത്തിയായ ശേഷം T3 സിപിയു നേടി എക്സിക്യൂട്ട് ചെയ്യാൻ ആരംഭിക്കുന്നു ഇത് ഒരൊറ്റ പ്രിയോറിറ്റി ഇൻവെർഷൻന്റെ ഉദാഹരണമാണ് കൂടാതെ T3 ടാസ്ക് തടയപ്പെടുന്ന സമയം T3 നും T4 നും ഇടയിലാണ് ഈ സമയം T3 ടാസ്ക് അതിന്റെ ക്രിട്ടിക്കൽ റിസോഴ്സ് ഉപയോഗിക്കുന്നത് പൂർത്തിയാക്കുന്നു T1 ന് പ്രിയോറിറ്റി ഇൻവെർഷൻ നേരിടേണ്ടിവരുന്ന പരമാവധി ദൈർഘ്യം T3 ന് ക്രിട്ടിക്കൽ റിസോഴ്സ് R ഉപയോഗിക്കാൻ ആവശ്യമായ ഏറ്റവും വലിയ ദൈർഘ്യത്തിന് തുല്യമാണിത് അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻ പ്രശ്നത്തെക്കുറിച്ചാണ് ഇനിപ്പറയുന്നത് അതേ റിസോഴ്സ് കാരണം ടാസ്ക് T1 ന് 2 പ്രിയോറിറ്റി ഇൻവെർഷൻ നേരിടേണ്ടിവരും റിസോഴ്സ് ആവശ്യമില്ലാത്ത T2 ടാസ്ക് പ്രവർത്തിപ്പിക്കാൻ ആരംഭിക്കുകയും സിപിയു ഉപയോഗിക്കുന്നതിൽ നിന്ന് T3 നെ തടയുകയും ചെയ്യുമ്പോൾ T1 ന് 2 പ്രിയോറിറ്റി ഇൻവെർഷൻ നേരിടുന്നു ഒന്ന് T 3 യെ കൊണ്ടും മറ്റേത് T2 യെ കൊണ്ടും T2 എക്സിക്യൂട്ട് ചെയ്യുന്നതിനാൽ T1 ന് റിസോഴ്സ് ഇല്ലാത്തതിനാൽ കാത്തിരിക്കേണ്ടതാണ് T3 റിസോഴ്സ് കൈവശം വച്ചിട്ടുണ്ട് പക്ഷേ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല കാരണം T2 എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങിയത് ഈ കാലയളവിൽ T3T2 എന്നിവ കാരണം 2 പ്രിയോറിറ്റി ഇൻവെർഷൻകൾ ഉണ്ടാക്കി കൊണ്ടാണ് ഈ ഉദാഹരണം വിപുലീകരിക്കുക ആണെങ്കിൽ നമ്മൾക്കു അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻ ഉണ്ട് ടി 3 ന് ഏറ്റവും കുറഞ്ഞ മുൻഗണനയുള്ള ഒന്നിലധികം ഇന്റർമീഡിയറ്റ് ടാസ്ക്കുകൾ ഞങ്ങൾ പരിഗണിക്കുന്നു T1 ആണ് കൂടിയ പ്രിയോറിറ്റി പക്ഷേ T2 1 T2 2 T2 n എന്നിങ്ങനെ ഇന്റർമീഡിയറ്റ് പ്രിയോറിറ്റിടാസ്ക്കുകൾ ഉണ്ട് റിസോഴ്സ് T3 നായി T1 തടഞ്ഞിരിക്കുന്നു തുടർന്ന് ഇന്റർമീഡിയറ്റ് പ്രിയോറിറ്റി ടാസ്ക് ഒന്നിനുപുറകെ ഒന്നായി നടപ്പിലാക്കുന്നു T3 എക്സിക്യൂഷൻ തീർക്കാൻ വേണ്ടി സി പി ഉ കിട്ടുന്നത് വരെ T1 കാത്തിരിക്കുന്നു പക്ഷേ അപ്പോഴേക്കും T1 അതിന്റെ സമയപരിധി നഷ്ടപ്പെടുത്തുന്നു അങ്ങനെ ഒരു അപ്ലിക്കേഷൻ പരാജയമുണ്ട് പരിധിയില്ലാത്ത മുൻഗണന പ്രശ്നം വേണ്ടവിധം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരു റിയൽ ടൈം അപ്ലിക്കേഷൻ പരാജയപ്പെടാം അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻ കാരണം ആപ്ലിക്കേഷൻ പരാജയം സംഭവിച്ചതിന് മുമ്പ് നിരവധി ഉദാഹരണങ്ങളുണ്ട് പക്ഷേ ഏറ്റവും പ്രശസ്തമായ ഉദാഹരണം മാർസ് പാത്ത് ഫൈൻഡറാണ് 1997 പാത്ത്ഫൈൻഡർ 1997 ജൂലൈ 4 ന് ചൊവ്വയുടെ ഉപരിതലത്തിൽ വന്നിറങ്ങി ചൊവ്വയുടെ ഉപരിതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സോജർനർ റോവർ എന്ന വാഹനം എയർ ബാഗുകളാൽ വളഞ്ഞിരുന്നു അത് മാർസ് ഉപരിതലത്തിലേക്ക് താഴുകയും അത് എയർബാഗിൽ നിന്ന് പുറത്തേക്ക് ചൊവ്വയുടെ ഉപരിതലത്തിലേക്ക്നീങ്ങുകയും ചെയ്തു കൂടാതെ ഭൂമിയുടെ സ്റ്റേഷനിലേക്ക്Earth's station വലിയ അളവിലുള്ള ഡാറ്റ കൈമാറാൻ തുടങ്ങി ഈ ഡാറ്റയിൽ നാസ പുറത്തുവിട്ട ചൊവ്വയുടെ ഉപരിതല ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചൊവ്വയുടെ ഉപരിതലത്തിലേക്ക് അവ പൊതുവായി വെബിൽ ലഭ്യമാണ് റോവർ ഒരു വലിയ സംഖ്യ ചിത്രങ്ങൾ കൈമാറി ഒരു ചിത്രം ചൊവ്വയുടെ ഉപരിതലത്തിൽ റോവർ വന്നിറങ്ങുകയും ബാഗുകളാൽ ചുറ്റപ്പെടുകയും ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങുകയും ചെയ്തത് ആണ് മാർസ് പാത്ത് ഫൈൻഡറിൽ നിന്നുള്ള മറ്റൊരു ചിത്രമാണിത് കടപ്പാട് നാസ പൊതുജനങ്ങൾക്ക് നൽകി എന്നാൽ പിന്നീട് പാത്ത്ഫൈൻഡർ സിസ്റ്റം റീസെട്അനുഭവിക്കാൻ തുടങ്ങി ഓരോ കുറച്ച് സെക്കൻഡിനുശേഷവും സിസ്റ്റം സ്വയം റീസെട് ആക്കാൻ തുടങ്ങി അതിന്റെ ഫലമായി ഡാറ്റ കൈമാറാൻ കഴിഞ്ഞില്ല ഡാറ്റയുടെ ഒരു ഭാഗം മാത്രമേ കൈമാറ്റം ചെയ്യപ്പെടുകയുള്ളൂ തുടർന്ന് അത് വീണ്ടും റീസെട് ആക്കും വീണ്ടും അത് പ്രക്ഷേപണം ആരംഭിക്കുകയും റീസെട് ആക്കുകയും അങ്ങനെ പൂർണ്ണമായ ഡാറ്റ കൈമാറാൻ കഴിഞ്ഞില്ല മാർസ് പാത്ത് ഫൈൻഡർ പരാജയങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നും ഈ പരാജയം വിവരിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദങ്ങൾ സോഫ്റ്റ്വെയർ ഗ്ലിട്ചെസ് ആണെന്നും അക്കാലത്ത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റ് ചില പത്രങ്ങൾ പാത്ത്ഫൈൻഡറിലെ കമ്പ്യൂട്ടർ ഒരേസമയം വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അതിനാൽ പരാജയപ്പെടുകയാണെന്നും റിപ്പോർട്ട് ചെയ്തു എന്നാൽ നാസയുടെ ലബോറട്ടറിയിൽ ശാസ്ത്രജ്ഞർ ബഗ് പരിഹരിക്കാൻ തീവ്രശ്രമത്തിലായിരുന്നു മാർസ് പാത്ത്ഫൈൻഡറിൽ VxWorks ഇത് വിൻഡ് റിവർ സിസ്റ്റങ്ങളിൽ നിന്നുള്ള ഒരു തത്സമയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കൂടാതെ ത്രെഡുകളുടെ നിരക്ക് മോണോടോണിക് ഷെഡ്യൂളിംഗ് ഉപയോഗിക്കുകയും ചെയ്തു പാത്ത്ഫൈൻഡറിൽ വ്യത്യസ്ത ടാസ്ക്കുകളിലും പങ്കിട്ട മെമ്മറിയിലൂടെ പങ്കിട്ട വിവരങ്ങളിലും ഒരു ടാസ്ക് മെമ്മറിയിലേക്ക് എഴുതുമ്പോൾ മറ്റേ ടാസ്ക് അത് വായിക്കുകയും തുടർന്ന് ബഹിരാകാശ പേടകത്തിന്റെ വ്യത്യസ്ത ഘടകങ്ങൾ പരസ്പരം പങ്കിട്ട മെമ്മറിയിലൂടെ ആശയവിനിമയം നടത്തുകയും ചെയ്യും പാത്ത്ഫൈൻഡർ ഡീബഗ് ചെയ്യുന്നതിന് നാസ ശാസ്ത്രജ്ഞർക്ക് അവരുടെ ലാബിൽ പാത്ത്ഫൈൻഡറിന്റെ ഒരു പകർപ്പ് ഉണ്ടായിരുന്നു അവർ ചൊവ്വയുടെ ഉപരിതലത്തിൽ സംഭവങ്ങളുടെ ഒരു സിമുലേഷൻ ചെയ്യാൻ തുടങ്ങി സന്ദർഭ സ്വിച്ചുകൾ എവിടെയാണ് സംഭവിച്ചതെന്ന് കണ്ടെത്തിയ വസ്തുക്കളിൽ ഡീബഗ് മോഡ് സജ്ജമാക്കി അല്ലെങ്കിൽ വസ്തുക്കൾ തമ്മിലുള്ള സമന്വയം തടസ്സങ്ങൾ സംഭവിക്കുമ്പോൾ സംഭവിച്ചു ഇവയെല്ലാം നിരീക്ഷിക്കാനും ഒടുവിൽ പാത്ത്ഫൈൻഡറിന്റെ തനിപ്പകർപ്പുമായി മണിക്കൂറുകളോളം പ്രവർത്തിച്ചതിനുശേഷം റീസെട് നടന്ന കൃത്യമായ വ്യവസ്ഥകൾ അവർക്ക് ഉൾകൊള്ളാനും കഴിയും ഒരു സെമാഫോർ മ്യൂട്ടക്സ് ഉപയോഗിക്കുന്നുണ്ടെന്നും ബൂളിയൻ ഗ്ലോബൽ വേരിയബിളായ Boolean global variable ഒരു ബൂളിയൻ പാരാമീറ്റർ ഉണ്ടെന്നും അവർ കണ്ടെത്തി ഇത് ബൂളിയൻ വേരിയബിളിന്റെ മൂല്യമാണോയെന്നും ബൂലിയൻ പാരാമീറ്റർ സൂചിപ്പിക്കുന്നത് പോലെ പ്രിയോറിറ്റി അവകാശം നടപ്പിലാക്കേണ്ടതുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ ബൂലിയൻ വേരിയബിൾ പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് സജ്ജമാക്കിയിട്ടുണ്ടെന്നും പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് ഓണാക്കാൻ കഴിയുമെങ്കിൽ പ്രശ്നം പരിഹരിക്കാമെന്നും അവർ കണ്ടെത്തി തുടർന്ന് അവർ മാർസ് പാത്ത്ഫൈൻഡറിലേക്ക് ഒരു ഹ്രസ്വ സി പ്രോഗ്രാം അപ്ലോഡുചെയ്തു തുടർന്ന് സംഭവിക്കുന്ന അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻ പരിഹരിക്കാനാകും ചുരുക്കത്തിൽ മാർസ് പാത്ത്ഫൈൻഡർ ഈ പ്രശ്നം നേരിടുന്നുവെന്ന് പറയാം കാരണം പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് നടപടിക്രമത്തിന്റെ രൂപത്തിലുള്ള അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻനുള്ള പരിഹാരം ബൂലിയൻ വേരിയബിൾ അപ്രാപ്തമാക്കി അവർ പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് നടപടിക്രമം പ്രാപ്തമാക്കിയതിനുശേഷം അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻ പ്രശ്നം പരിഹരിക്കാൻ അതിന് കഴിഞ്ഞു പ്രിയോറിറ്റി ഇൻവെർഷൻനും ഒന്നിലധികം പ്രിയോറിറ്റി ഇൻവെർഷൻ ഉള്ള പരിഹാരങ്ങൾ ചുവടെ ചേർക്കുന്നു കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് കാരണം ഉയർന്ന മുൻഗണനയുള്ള ടാസ്ക് മുൻഗണനാ വിപരീതത്തിന് വിധേയമാകുകയാണെങ്കിൽ മുൻഗണനാ വിപരീതം സംഭവിക്കാൻ കഴിയുന്ന ഏറ്റവും ദൈർഘ്യമേറിയ സമയം കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് അതിന്റെ നിർണ്ണായക വിഭാഗം നടപ്പിലാക്കേണ്ട പരമാവധി സമയമാണ് കാരണം നമുക്കറിയാം പ്രിയോറിറ്റി ഇൻവെർഷൻ ഒരു കാലയളവിലേക്ക് പരിമിതപ്പെടുത്തിയിരിക്കുന്നു അത് കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ടാസ്ക്കിന് എക്സ്ക്ലൂസീവ് മോഡിൽexclusive mode റിസോഴ്സ് ആവശ്യമുള്ളതിനു തുല്യമാണ് കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ടാസ്ക് ക്രിട്ടിക്കൽ സെക്ഷൻ ഉപയോഗിക്കേണ്ട സമയം എന്നത് ഉയർന്ന പ്രിയോറിറ്റിയുള്ള ടാസ്ക് പ്രിയോറിറ്റി ഇൻവെർഷൻ അനുഭവിക്കുന്ന സമയമാണ് കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷ ഉപയോഗിക്കുന്ന സമയം പരിമിതപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധാപൂർവ്വമായ പ്രോഗ്രാമിംഗിലൂടെ ഈ ഒരൊറ്റ പ്രിയോറിറ്റി ഇൻവെർഷൻ പ്രശ്നം പരിഹരിക്കാനാകും ക്രിട്ടിക്കൽ സെക്ഷൻ ന്റെ ഉപയോഗങ്ങളിൽ സ്ഥിരമായ ഒരു പോയിന്റ് ഉണ്ടാകുമ്പോഴെല്ലാം അത്റിസോഴ്സ് പുറത്തു വിടുന്നു ശ്രദ്ധാപൂർവ്വം പ്രോഗ്രാമിംഗിലൂടെ കുറഞ്ഞ മുൻഗണനയുള്ള ടാസ്ക് മുൻകൂട്ടി നിശ്ചയിക്കാനാവാത്ത റിസോഴ്സ് ഉപയോഗിക്കേണ്ട കാലയളവ് വളരെ ചെറുതാക്കാം എന്നാൽ അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻ പ്രശ്നം ശ്രദ്ധാപൂർവ്വമായ പ്രോഗ്രാമിംഗിലൂടെ സമാനമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയില്ല അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻ പരിഹാരങ്ങളെ ടാസ്ക്കുകൾക്കിടയിൽ റിസോഴ്സ് പങ്കിടലിനുള്ള പ്രോട്ടോക്കോളുകൾ എന്ന് വിളിക്കുന്നു ഈ പ്രോട്ടോക്കോളുകളിൽ ഏറ്റവും ലളിതമായത് അടിസ്ഥാന പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പ്രോട്ടോക്കോൾbasic priority inheritance protocol എന്ന് വിളിക്കുന്നു 1990 ൽ ഷായും രാജ്കുമാറും ഇത് നിർദ്ദേശിച്ചു ഈ പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പ്രോട്ടോക്കോളിന് പിന്നിലെ പ്രധാന ആശയം കുറഞ്ഞ പ്രിയോറിറ്റി ചുമതല ഒരിക്കൽ ക്രിട്ടിക്കൽ സെക്ഷൻ നിർവ്വഹിക്കുകയാണെങ്കിൽ അത് തടയാൻ കഴിയില്ല എന്നതാണ് ക്രിട്ടിക്കൽ സെക്ഷൻ റിലീസ് ചെയ്യാൻ കഴിയുന്ന ദൈർഘ്യം ഹ്രസ്വമാക്കുകയെന്നതാണ് കഴിയുന്നത്ര വേഗത്തിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു കാര്യം അതിനാൽ ഉയർന്ന പ്രിയോറിറ്റിയുള്ള ടാസ്ക്കിന് ഈ റിസോഴ്സ് ഉപയോഗിക്കാൻ കഴിയും കൂടാതെ ഇൻവെർഷൻ സമയം ചെറുതായിരിക്കും കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ഒരു ദൌത്യം എത്രയും വേഗം പൂർത്തിയാക്കുക എന്നതാണ് ഇവിടെ പ്രധാന ആശങ്ക തന്നിരിക്കുന്ന പ്രോട്ടോക്കോൾ ലളിതമാണ് കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ടാസ്ക് എത്രയും വേഗം പൂർത്തിയാക്കുകയും ക്രിട്ടിക്കൽ സെക്ഷൻ ൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുമ്പോഴെല്ലാം സിപിയു ഉപയോഗിക്കാൻ തുടങ്ങിയ ഇന്റർമീഡിയറ്റ് പ്രിയോറിറ്റിയുള്ള ജോലികൾ കാലതാമസം നേരിടുന്നുവെന്നതും കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ടാസ്ക് പുരോഗതി നേടാൻ കഴിയാത്തതുമാണ് പ്രശ്നം കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ടാസ്ക്കിന്റെ പ്രിയോറിറ്റി ഉയർത്തുക എന്നതാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം അതിനാൽ ഇന്റർമീഡിയറ്റ് പ്രിയോറിറ്റി ചുമതല നിർണ്ണയിക്കാൻ കഴിയില്ല എന്നാൽ കുറഞ്ഞ പ്രിയോറിറ്റി ചുമതലയുടെ പ്രിയോറിറ്റി ഉയർത്തുന്നത് അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷൻ നിർവ്വഹിക്കുന്നത് പ്രധാനമാണ് അത് ആശങ്കാജനകമാണ് കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ഒരു ജോലിയുടെ ക്രിട്ടിക്കൽ സെക്ഷൻ നിർവ്വഹിച്ചുകഴിഞ്ഞാൽ അതിന്റെ പ്രിയോറിറ്റി എത്രയായിരിക്കണം എന്ന ചോദ്യം ഉന്നയിക്കണം കുറഞ്ഞ പ്രിയോറിറ്റി ചുമതലയുടെ പ്രിയോറിറ്റി റിസോഴ്സ്നായി കാത്തിരിക്കുന്ന ടാസ്ക്കിന് തുല്യമാക്കുക എന്നതാണ് ഉത്തരം അതിനാൽ ഇന്റർമീഡിയറ്റ് പ്രിയോറിറ്റി ചുമതലയ്ക്ക് ഈ കുറഞ്ഞ പ്രിയോറിറ്റി ചുമതല പ്രീ എംപ്ട് ചെയ്യാൻ കഴിയില്ല ഒരു റിസോഴ്സ് ഇതിനകം ഉപയോഗത്തിലായിരിക്കുമ്പോൾ ഈ അടിസ്ഥാന പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പ്രോട്ടോക്കോളിൽ റിസോഴ്സ് ആവശ്യമുള്ള ഉയർന്ന പ്രിയോറിറ്റിയുള്ള ഒരു ടാസ്ക് അഭ്യർത്ഥന നടത്തുകയും എല്ലാ അഭ്യർത്ഥനകളും FIFO ക്രമത്തിൽ ക്യൂവിലാക്കുകയും ചെയ്യുന്നു റിസോഴ്സിനായി ഉയർന്ന പ്രിയോറിറ്റിയുള്ള ടാസ്ക് അഭ്യർത്ഥിക്കുന്ന ഓരോ സമയത്തും ഇൻഹെറിറ്റൻസ് ക്ലോസ് പ്രയോഗിക്കുകയും കുറഞ്ഞ പ്രിയോറിറ്റി ടാസ്ക്കിന്റെ low priority tasks priority റിസോഴ്സിനായി കാത്തിരിക്കുന്ന ഉയർന്ന പ്രിയോറിറ്റി ടാസ്ക്കിന് തുല്യമാക്കുകയും ചെയ്യുന്നു റിസോഴ്സിനായി ഉയർന്ന പ്രിയോറിറ്റി യുള്ള ടാസ്ക് തടയുമ്പോഴെല്ലാം അതാണ് ലളിതമായ പ്രോട്ടോക്കോൾ കുറഞ്ഞ പ്രിയോറിറ്റി യുള്ള ടാസ്ക് റിസോഴ്സ്നെ തടയുന്ന ഏറ്റവും ഉയർന്ന പ്രിയോറിറ്റിയുള്ള ടാസ്ക്കിന്റെ പ്രിയോറിറ്റി അവകാശമാക്കുന്നു ഉദാഹരണത്തിന് കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ഒരു ടാസ്ക് റിസോഴ്സ് കൈവശം വയ്ക്കുന്നു കൂടാതെ ഉയർന്ന പ്രിയോറിറ്റിയുള്ള ടാസ്ക് റിസോഴ്സിന്റെ ഉപയോഗങ്ങൾ പൂർത്തിയാക്കുന്നതിനായി കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ടാസ്ക്കിനായി കാത്തിരിക്കുന്നു അതേസമയം കുറഞ്ഞ പ്രിയോറിറ്റി യുള്ള ടാസ്ക്കിന്റെ പ്രിയോറിറ്റി ഉയർന്ന പ്രിയോറിറ്റി ടാസ്ക്കിന് തുല്യമായി ഉയർത്തുന്നു അതിനാൽ ഇന്റർമീഡിയറ്റ് പ്രിയോറിറ്റി ചുമതലയ്ക്ക് കുറഞ്ഞ പ്രിയോറിറ്റി ചുമതല നിർണ്ണയിക്കാൻ കഴിയില്ല ഇതിനെ പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പദ്ധതി എന്ന് വിളിക്കുന്നു സ്കീമിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം ഇവിടെ ഉയർന്ന പ്രിയോറിറ്റിയുള്ള ടാസ്ക് റിസോഴ്സ് ബ്ളോക് ചെയ്താൽ കുറഞ്ഞ പ്രിയോറിറ്റി ഉള്ള ടാസ്കിന്റെ പ്രിയോറിറ്റി low priority tasks priority ആ ക്യൂവിലെqueue ഉയർന്ന പ്രിയോറിറ്റി ഉള്ള ടാസ്കിനു തുല്യം ആകും 2 ടാസ്കുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾക്കു ഇടത്തരം പ്രിയോറിറ്റിയും മറ്റേ ടാസ്കിനു ഉയർന്ന പ്രിയോറിറ്റിയും ആണെങ്കിൽ റിസോഴ്സ് ഉപയോഗിച്ചു എക്സിക്യൂട്ട് ചെയുന്ന കുറഞ്ഞ പ്രിയോറിറ്റി ഉള്ള ടാസ്കിനു ഇവർ രണ്ടിലും ഉയർന്ന പ്രിയോറിറ്റി ലഭിക്കും എന്നാൽ കുറഞ്ഞ പ്രിയോറിറ്റി ഉള്ള ടാസ്ക് അതിന്റെ റിസോഴ്സ്ന്റെ ഉപയോഗം കഴിഞ്ഞാൽ ആ ടാസ്ക് അതിന്റെ പഴയ പ്രിയോറിറ്റിലേക്ക് പോകും കുറഞ്ഞ പ്രിയോറിറ്റിയുള്ള ടാസ്ക് വീണ്ടും കുറഞ്ഞ പ്രിയോറിറ്റിയായി മാറുകയും അത് റിസോഴ്സ് റിലീസ് ചെയ്തുകഴിഞ്ഞാൽ അതിന്റെ പ്രിയോറിറ്റി മൂല്യം മാറുകയും ചെയ്യും അത് മറ്റ് നിർണായക റിസോഴ്സ്കൾ കൈവശം വയ്ക്കുന്നില്ലെങ്കിൽ ഉയർന്ന പ്രിയോറിറ്റിയുള്ള ടാസ്ക് കാത്തിരിക്കുന്നു ഒപ്പം കാത്തിരിക്കുന്ന ഉയർന്ന പ്രിയോറിറ്റി ചുമതലയുടെ പ്രിയോറിറ്റിയും അത് നേടുന്നു അത് റിസോഴ്സ് പുറത്തിറക്കിയാലുടൻ അത് അതിന്റെ യഥാർത്ഥ പ്രിയോറിറ്റിയിലേക്ക് മടങ്ങുന്നു എന്നാൽ പിന്നെ വരുന്നത് അത് സൃഷ്ടിക്കുന്ന പ്രശ്നവും അത് പരിഹരിക്കുന്ന പ്രശ്നവുമാണ് അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻന്റെ പ്രശ്നം ഇത് പരിഹരിച്ചു പക്ഷേ അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്നത് ഇവിടെ ഒരു പ്രധാന ചോദ്യമാണ് അൺബൌണ്ടഡ് പ്രിയോറിറ്റി ഇൻവെർഷൻ പ്രശ്നം ഇത് പരിഹരിച്ചു കാരണം കുറഞ്ഞ പ്രിയോറിറ്റി ചുമതലയുടെ പ്രിയോറിറ്റി കാത്തിരിക്കുന്ന ഉയർന്ന പ്രിയോറിറ്റി priorityചുമതലയുടെ പ്രിയോറിറ്റിയിലേക്ക് ഉയർത്തുന്നതിലൂടെ എന്നാൽ ഇൻഹെറിറ്റൻസ് ക്ലോസിൽ കുറഞ്ഞ പ്രിയോറിറ്റി ഉള്ള ടാസ്കിന്റെ പ്രിയോറിറ്റി വെയിറ്റ് ചെയ്യുന്ന ഉയർന്ന പ്രിയോറിറ്റി ടാസ്കിലേക് ഉയർത്തുന്നതിലൂടെ അതിനാൽ കുറഞ്ഞ പ്രിയോറിറ്റി ഉള്ള ടാസ്കിനെ സി പി ഉ ഉപയോഗിക്കുന്നത് തടയാൻ ശ്രമിക്കുന്ന ഇന്റർമീഡിയേറ്റ പ്രിയോറിറ്റി ടാസ്കിനു അങ്ങനെ ചെയ്യാൻ കഴിയില്ല അതിനാൽ അൺബൌണ്ടഡ് പ്രിയോറിറ്റി പ്രശ്നം പരിഹരിക്കപ്പെടും ഇന്റർമീഡിയറ്റ് പ്രിയോറിറ്റി ടാസ്ക്കുകൾക്ക് ഇനിമേൽ പ്രീ എംപ്ട്ചെയ്യാൻ കഴിയില്ല കൂടാതെ അൺബൌണ്ടഡ് പ്രിയോറിറ്റിപ്രശ്നവും പരിഹരിക്കപ്പെടും ഇത് പ്രിയോറിറ്റി ഇൻഹെറിറ്റൻസ് പ്രോട്ടോക്കോളിന്റെ പ്രവർത്തനത്തിന്റെ സ്കീമാറ്റിക് പ്രാതിനിധ്യമാണ് ഇവിടെ കുറഞ്ഞ പ്രിയോറിറ്റി ചുമതല നിർണ്ണായകമായ ഒരു റിസോഴ്സ് കൈവശം വയ്ക്കുന്നു കൂടാതെ പ്രിയോറിറ്റി മൂല്യം സമയം 1 ൽ 5 ആണ് സമയം 2ൽ ഒരു ഉയർന്ന പ്രാധാന്യം ഉള്ള ജോലി എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു അതിന്റെ പ്രിയോറിറ്റി ലെവൽ 10 ആണ് കുറച്ച് സമയത്തിന് ശേഷം റിസോഴ്സ് ആവശ്യമായി വന്നു കൂടാതെ റിസോഴ്സ് ഇതിനകം തന്നെ കുറഞ്ഞ പ്രിയോറിറ്റി ചുമതലയുള്ളതിനാൽow priority task അത് തടഞ്ഞു പച്ച കാണിച്ചതുപോലെ ഇത് നടപ്പിലാക്കാൻ തുടങ്ങി പക്ഷേ ഉയർന്ന പ്രിയോറിറ്റിയുള്ള ചുമതല കാത്തിരിക്കുന്നതിനാൽ അതിന്റെ പ്രിയോറിറ്റി മാറി കാത്തിരിക്കാൻ ആരംഭിച്ചുകഴിഞ്ഞാൽ അതിന്റെ പ്രിയോറിറ്റി 5 ൽ നിന്നും 10 ആയി മാറും ഉയർന്ന പ്രിയോറിറ്റിയുള്ള ടാസ്ക്കിന് മുൻഗണന 10 ഉള്ളതിനാൽ അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കും തുടർന്ന് അത് റിസോഴ്സ് റിലീസ് ചെയ്യുമ്പോൾ അത് സ്വന്തം പ്രിയോറിറ്റിമൂല്യത്തിലേക്ക് മടങ്ങുന്നു നമ്മൾ ഈ ലെക്ചട്യൂറിൻറെ അവസാനം എത്തി ബാക്കി അടുത്ത ക്ലാസ്സിൽ നന്ദി